ഈ പ്രഭാഷണത്തിൽ സൈബർ സുരക്ഷയെക്കുറിച്ച് നമ്മൾ സംസാരിക്കും അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വാസ്തവത്തിൽ IoT യിലും പൊതുവേയും IIoT യിലും അതുപോലെ വ്യവസായങ്ങൾക്കും ഏറെ ആശങ്കയുള്ള ഒരു വിഷയം ഇൻഡസ്ട്രി 4 0 ന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഇതുവരെ സംസാരിച്ചതെന്തും ആളുകൾ അവരുടെ സിസ്റ്റങ്ങളുടെ സുരക്ഷ ഫിസിക്കൽ സിസ്റ്റങ്ങൾ സൈബർ ഫിസിക്കൽ സിസ്റ്റങ്ങൾ കൂടാതെ ഡാറ്റയുടെ സുരക്ഷ എന്നിവയെക്കുറിച്ച് കൂടുതൽ ഉത്കണ്ഠാകുലരല്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം അർത്ഥപൂർണ്ണമായിരിക്കും സിസ്റ്റത്തിലൂടെ ശേഖരിക്കപ്പെടുകയും കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്ന മൊത്തത്തിലുള്ള ഡാറ്റ സുരക്ഷിതമാക്കണം ഡാറ്റയുടെ സ്വകാര്യത നിലനിർത്തണം അത് ഡാറ്റയായിരിക്കണം ഒരു വ്യക്തിയിൽ നിന്ന് ലഭിക്കുന്നത് അത് വിശ്വസനീയമായിരിക്കണം അങ്ങനെ പലതും അതിനാൽ സൈബർ സുരക്ഷയുടെ കാര്യത്തിൽ ഇതുപോലുള്ള വ്യത്യസ്ത അനുബന്ധ പ്രശ്നങ്ങളും ഉണ്ട് സുരക്ഷ സ്വകാര്യത വിശ്വാസം ഇവയെല്ലാം പരസ്പരബന്ധിതമായ എന്റിറ്റികളാണ് ഏതൊരു സിസ്റ്റത്തിന്റെയും പശ്ചാത്തലത്തിൽ തീർച്ചയായും ഏതൊരു ഇന്റർനെറ്റ് അധിഷ്ഠിത സംവിധാനത്തിനും കുറഞ്ഞ പവർ റിസോഴ്സ് കൺസ്ട്രെയിന്റ് സിസ്റ്റങ്ങൾക്കും IoT IIoT മുതലായവയ്ക്ക് ഇവ വളരെ ആശങ്കാകുലമാണ് അതിനാൽ ഇൻഡസ്ട്രി 4 0 ന്റെ പശ്ചാത്തലത്തിൽ സൈബർ സുരക്ഷയുടെ അടിസ്ഥാന ആശയങ്ങൾ അതിന്റെ വ്യത്യസ്ത ഘടകങ്ങൾ എന്തൊക്കെയാണ് സൈബർ ഫിസിക്കൽ സിസ്റ്റങ്ങൾ സുരക്ഷിതമാക്കുന്നതിന്റെ കാര്യത്തിൽ നിലനിൽക്കുന്ന ചില വ്യത്യസ്ത തരത്തിലുള്ള ഭീഷണികൾ എന്നിവ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വ്യവസായങ്ങൾ അതിനാൽ ഇവ ഓരോന്നും ഞങ്ങൾ ഇപ്പോൾ വിശദമായി പരിശോധിക്കും അപ്പോൾ എന്താണ് സൈബർ സുരക്ഷ അടിസ്ഥാനപരമായി സൈബർ ഇൻഫ്രാസ്ട്രക്ചറിന്റെ സുരക്ഷയാണ് അവിടെയുള്ളത് അടിസ്ഥാനപരമായി എന്താണ് ഉള്ളതെന്ന് കമ്പ്യൂട്ടിംഗിൽ നമ്മൾ സംസാരിക്കുന്നത് കമ്പ്യൂട്ടിംഗിലെ സൈബർസ്പേസിനെക്കുറിച്ചല്ല ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ മുതലായവ ഉൾപ്പെടുന്ന കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചറിനെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത് സൈബർ ഇൻഫ്രാസ്ട്രക്ചറിന്റെ സുരക്ഷ മാത്രമല്ല ശാരീരിക സുരക്ഷ ശാരീരിക സുരക്ഷ എന്നിവയും കമ്പ്യൂട്ടിംഗ് മെഷീനുകൾ നോൺ കമ്പ്യൂട്ടിംഗ് മെഷീനുകൾ തുടങ്ങിയവ അതിനാൽ മറ്റ് എല്ലാത്തരം മെഷീനുകളും സൈബർ ഇൻഫ്രാസ്ട്രക്ചർ പ്രവർത്തിക്കുന്ന മെഷീനുകളുടെ ഭൌതിക സുരക്ഷയാണ് അതിനാൽ ഞങ്ങൾ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് ആശങ്കാകുലരാണ് ഒന്ന് സൈബർ സുരക്ഷയും ശാരീരിക സുരക്ഷയും സുരക്ഷയുടെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ പ്രാഥമികമായി ഉത്കണ്ഠപ്പെടുന്ന രണ്ട് വ്യത്യസ്ത കാര്യങ്ങളാണ് അതിനാൽ എന്തിനെതിരെ സംരക്ഷിക്കുന്നു വ്യത്യസ്ത ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു ഇൻഫ്രാസ്ട്രക്ചറിനെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥാപനങ്ങൾ ആക്രമണം നടത്തും വ്യാവസായിക ഐഒടിയുടെ പശ്ചാത്തലത്തിൽ സിസ്റ്റങ്ങൾ എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് അടിസ്ഥാനപരമായ അടിസ്ഥാനം അതിനാൽ അവയെല്ലാം പരസ്പരബന്ധിതമാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഇന്റർനെറ്റ് വർക്ക് ഉണ്ട് കൂടാതെ ഞങ്ങൾ സംസാരിക്കുന്നത് വ്യത്യസ്ത നുഴഞ്ഞുകയറ്റക്കാർ സിസ്റ്റത്തിലേക്ക് പ്രവേശിക്കുകയും സിസ്റ്റത്തെ ദോഷകരമായി ബാധിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നടത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു അത് പ്രവർത്തിക്കുന്ന രീതി വ്യത്യസ്ത ഡാറ്റ എന്നിവയെ കുറിച്ചാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നു ഡാറ്റ മോഷ്ടിക്കുന്നു മൊത്തത്തിൽ നെറ്റ്വർക്കിനും ഹാർഡ്വെയറിനും സോഫ്റ്റ്വെയറിനും ഫിസിക്കൽ മെഷീനുകൾക്കും ദോഷം വരുത്തുന്നു അതിനാൽ ഇവയെല്ലാം ഇന്റർനെറ്റ് കണക്റ്റഡ് ലോകത്ത് സൈബർ സുരക്ഷയുടെ വ്യത്യസ്ത വശങ്ങളാണ് അതിനാൽ സൈബർ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഡാറ്റ എന്നിവ എങ്ങനെ സംരക്ഷിക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത് അതിനാൽ ഒരു സൈബർ ഫിസിക്കൽ സിസ്റ്റം എന്റർപ്രൈസസിന്റെ കാര്യത്തിൽ ഡാറ്റാ സെന്ററുകളിലേക്കുള്ള അനൌദ്യോഗിക പ്രവേശനത്തിനെതിരെ ഒരേസമയം സൈബർ സുരക്ഷയും ഫിസിക്കൽ സെക്യൂരിറ്റിയും ഉപയോഗിക്കുന്നു എന്നതാണ് സംഭവിക്കുന്നത് അതിനാൽ നമ്മൾ എന്താണ് സംരക്ഷിക്കേണ്ടത് അത് എന്തിൽ നിന്നുള്ള സംരക്ഷണമാണ് അതിനാൽ ഡാറ്റയിലെ അനധികൃതവും അനൌദ്യോഗികവുമായ മാറ്റത്തിനെതിരായ സംരക്ഷണം ഡാറ്റയുടെ അനൌദ്യോഗിക ഇല്ലാതാക്കൽ സാക്ഷ്യപ്പെടുത്താത്ത ആക്സസ് എന്നിവയിൽ അനധികൃതമായി അതിനാൽ സംരക്ഷണം നൽകേണ്ട 3 വ്യത്യസ്ത കാര്യങ്ങൾ ഇവയാണ് പൊതുവേ എങ്ങനെ IIoT സിസ്റ്റങ്ങൾ അല്ലെങ്കിൽ IoT സിസ്റ്റങ്ങൾ പൊതുവായി പ്രവർത്തിക്കുന്നു എന്നതിനെ കുറിച്ച് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കുകയും തിരിച്ച് മനസ്സിലാക്കുകയും ചെയ്യാം ഇത് നമ്മൾ നേരത്തെ തന്നെ കാര്യമായി വിശദമായി ചർച്ച ചെയ്ത കാര്യമാണ് അപ്പോൾ നമുക്ക് എന്താണ് ഉള്ളത് വിന്യസിച്ചിരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള സെൻസർ ഉള്ള വ്യത്യസ്ത ഫിസിക്കൽ സിസ്റ്റങ്ങൾ നമുക്കുണ്ട് അതിനാൽ ഞങ്ങൾക്ക് ഒരു മെഷീൻ 1 ഉണ്ട് അതിന് കുറച്ച് സെൻസർ ഉണ്ട് നമുക്ക് പറയാം മറ്റെന്തെങ്കിലും സെൻസറുള്ള ഒരു മെഷീൻ 2 അതുപോലെ ഒന്നോ അതിലധികമോ സെൻസറുകളുള്ള വ്യത്യസ്ത മെഷീനുകൾ നമുക്കുണ്ട് ഇവിടെ ഞാൻ ഓരോ മെഷീനും ഒരൊറ്റ സെൻസർ വരച്ചിട്ടുണ്ട് എന്നാൽ ഒരു മെഷീനിൽ ഒന്നിലധികം വ്യത്യസ്ത സെൻസറുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് അപ്പോൾ ഈ സെൻസറുകൾ എന്താണ് ചെയ്യുന്നത് ഞങ്ങൾ ഇത് മുമ്പ് കണ്ടിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള നെറ്റ്വർക്ക് വഴി ഈ മെഷീനുകൾ മറ്റ് ചില ഇൻഫ്രാസ്ട്രക്ചറുകളിലേക്ക് ഡാറ്റ അയയ്ക്കാൻ പോകുന്നു ഇവിടെയാണ് ഞങ്ങൾക്ക് കുറച്ച് ഡാറ്റാ സെന്റർ അല്ലെങ്കിൽ കുറച്ച് സെർവർ അല്ലെങ്കിൽ അത് പോലെയുള്ള എന്തെങ്കിലും ഡാറ്റയിലേക്ക് ആക്സസ് ലഭിക്കും അത് ഡാറ്റ നേടും ഞങ്ങൾ അതിൽ വ്യത്യസ്ത അനലിറ്റിക്സ് പ്രവർത്തിപ്പിക്കും ഇതാണ് സാധാരണയായി ചെയ്യുന്നത് അനലിറ്റിക്സിന്റെ അടിസ്ഥാനത്തിൽ ചില തരത്തിലുള്ള ആക്ച്വേഷൻ നടപ്പിലാക്കേണ്ടതുണ്ടെന്നും ഞങ്ങൾ കണ്ടു അതിനാൽ വളരെ ഉയർന്ന തലത്തിലുള്ള ഏതൊരു IoT സിസ്റ്റവും IIoT സിസ്റ്റവും സാധാരണയായി ഇങ്ങനെയാണ് പ്രവർത്തിക്കാൻ പോകുന്നത് അതിനാൽ ഇവിടെയുള്ള വ്യത്യസ്ത പാളികൾ എന്തൊക്കെയാണ് നമ്മുടെ പക്കൽ സെൻസറുകൾ ഉണ്ട് അവ പ്രവർത്തിക്കുന്ന ഭൌതിക പരിതസ്ഥിതിയിലെ പരിസ്ഥിതിയെ മനസ്സിലാക്കുകയും ചില നെറ്റ്വർക്കിലൂടെ ഡാറ്റ ശേഖരിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഈ ഡാറ്റ നെറ്റ്വർക്കിലൂടെയാണ് അയയ്ക്കുന്നത് വിശകലനം ചെയ്യേണ്ടി വരും ഇവിടെ കുറച്ച് ആക്ച്വേഷൻ ആവശ്യമായി വന്നേക്കാം ആക്ച്വേഷൻ ഉണ്ടാകാം അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചേക്കാവുന്നത് പോലും ഏതെങ്കിലും തരത്തിലുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിലെ ഡാറ്റയുടെ വിശകലനമായിരിക്കും അതിനാൽ നമ്മൾ സൈബർ സുരക്ഷയെക്കുറിച്ചാണോ സംസാരിക്കുന്നതെന്ന് ഇപ്പോൾ നമുക്കറിയാം ഇതൊക്കെയാണ് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടത് നമുക്ക് സമഗ്രമായി സംരക്ഷിക്കേണ്ടതുണ്ട് ഈ സിസ്റ്റത്തെ അനധികൃതവും ഉദ്ദേശിക്കാത്തതുമായ ആക്സസ്സിൽ നിന്നും സിസ്റ്റത്തിന് സംഭവിക്കാവുന്ന ദോഷങ്ങളിൽ നിന്നും സംരക്ഷിക്കേണ്ടതുണ്ട് അപ്പോൾ ഞങ്ങൾ അത് എങ്ങനെ ചെയ്യും ഒരു കാര്യം ഈ സെൻസറുകളിൽ നിന്ന് ലഭിക്കുന്ന ഡാറ്റ നമുക്ക് അത് സംരക്ഷിക്കാൻ കഴിയും അപ്പോൾ നമുക്ക് എന്താണുള്ളത് ഞങ്ങൾക്ക് ഡാറ്റ അല്ലെങ്കിൽ വിവര സുരക്ഷയുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് ഇത് നമ്പർ 1 ആണ് നമ്പർ 2 ആയിരിക്കും അവസാനം ഡാറ്റ നെറ്റ്വർക്ക് വഴി അയയ്ക്കേണ്ടിവരും അതിനാൽ ഞങ്ങൾക്ക് നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഇന്റർ നെറ്റ്വർക്ക് സുരക്ഷ ഉണ്ടായിരിക്കണം ഇതുപോലുള്ള സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന ഈ ആപ്ലിക്കേഷനുകളും ഞങ്ങൾ പരിരക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് അതിനാൽ ഞങ്ങൾ ആപ്ലിക്കേഷൻ സുരക്ഷയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് മറ്റ് ചില തരത്തിലുള്ള സുരക്ഷാ ആശങ്കകളും ഉണ്ടായിരിക്കണം അതിനാൽ സിസ്റ്റം ഉപയോഗിക്കുന്ന ഉപയോക്താക്കൾ അന്തിമ ഉപയോക്താക്കൾ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ പങ്കെടുക്കുന്ന വ്യത്യസ്ത അഭിനേതാക്കൾ എന്നിവരും സിസ്റ്റം ശരിയായി ഉപയോഗിക്കുന്നതിന് മതിയായ വിദ്യാഭ്യാസം നേടേണ്ടതുണ്ട് കൂടാതെ സിസ്റ്റത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം ഡാറ്റയുടെ അടിസ്ഥാന സൌകര്യങ്ങളും മറ്റും ഞങ്ങൾ സംസാരിക്കുന്നത് സുരക്ഷയ്ക്കായുള്ള അന്തിമ ഉപയോക്തൃ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് അവസാനമായി മൊത്തത്തിൽ പ്രവർത്തനത്തിന്റെ സുരക്ഷയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ അതിനാൽ പ്രവർത്തന സുരക്ഷ അതിനാൽ IoT അല്ലെങ്കിൽ IIoT യുടെ പശ്ചാത്തലത്തിൽ വ്യത്യസ്തമായ സുരക്ഷാ ആശങ്കകളായി ഞങ്ങൾക്ക് ഇവയുണ്ട് സൈബർ സുരക്ഷ ആപ്ലിക്കേഷൻ സുരക്ഷ വിവര സുരക്ഷ ഡാറ്റ സുരക്ഷ വിവരങ്ങൾ അല്ലെങ്കിൽ ഡാറ്റ സുരക്ഷ നെറ്റ്വർക്ക് സുരക്ഷ പ്രവർത്തന സുരക്ഷ അന്തിമ ഉപയോക്തൃ വിദ്യാഭ്യാസം എന്നിവയുടെ പ്രധാന ഘടകങ്ങൾ ഇവയാണ് ആപ്ലിക്കേഷൻ സുരക്ഷ അടിസ്ഥാനപരമായി നിങ്ങൾ വ്യത്യസ്ത ആപ്ലിക്കേഷനുകളെ ബാഹ്യ ഭീഷണികളിൽ നിന്ന് സംരക്ഷിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നു അതിനാൽ അടിസ്ഥാനപരമായി ഈ പ്രത്യേക സംരക്ഷണത്തിനായി ചില സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ നടപടിക്രമ രീതികൾ എന്നിവ ഉപയോഗിക്കാം അതിനാൽ സോഫ്റ്റ്വെയർ തലത്തിലും ഹാർഡ്വെയർ തലത്തിലും ഏതെങ്കിലും തരത്തിലുള്ള പ്രതിരോധ നടപടികൾ ആവശ്യമാണ് സോഫ്റ്റ്വെയർ ലെവൽ ഈ പ്രത്യേക സംരക്ഷണത്തിനായി ഒരാൾക്ക് വ്യത്യസ്ത ആപ്ലിക്കേഷൻ ഫയർവാളുകൾ ഉപയോഗിക്കാം ഹാർഡ്വെയർ തലത്തിൽ ചില തരത്തിലുള്ള പ്രോക്സിയോ റൂട്ടറോ അല്ലെങ്കിൽ സമാനമായ തരത്തിലുള്ള ഉപകരണമോ ഉപയോഗിക്കാവുന്നതാണ് ഇത് ഇത്തരത്തിലുള്ള ബാഹ്യ ഭീഷണികളിൽ നിന്ന് സംരക്ഷണം നൽകും അതിനാൽ സ്വീകരിക്കാവുന്ന വ്യത്യസ്ത നടപടികളാണിത് വിവര സുരക്ഷ അടിസ്ഥാനപരമായി സൈബർ സുരക്ഷയുടെ ഒരു ഉപവിഭാഗമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് സ്വീകരിക്കേണ്ട ഒരു കൂട്ടം തന്ത്രങ്ങളെക്കുറിച്ചാണ് അവയുമായി ബന്ധപ്പെട്ട ചില നയങ്ങളും ചില ഉപകരണങ്ങളും ഉണ്ടായിരിക്കും ഈ നയങ്ങൾ ഉപകരണങ്ങൾ ചില നിയമങ്ങളെ അടിസ്ഥാനമാക്കി വ്യത്യസ്ത ഭീഷണികളെ ഫിൽട്ടർ ചെയ്യേണ്ടതാണ് അനന്തരഫലമായി ഈ വ്യത്യസ്ത നയങ്ങളുടെ എല്ലാ നിയമങ്ങളും ഞങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നു ഞങ്ങൾ ഡാറ്റയുടെ ലഭ്യതയും സമഗ്രതയും രഹസ്യാത്മകതയും നിലനിർത്തും ഇത് വളരെ പ്രധാനമാണ് അതിനാൽ ബിസിനസ്സുകളുടെയും വ്യവസായങ്ങളുടെയും പശ്ചാത്തലത്തിൽ വിവര സുരക്ഷ സംരക്ഷണം ഡാറ്റയുടെ ലഭ്യത സമഗ്രത രഹസ്യസ്വഭാവം എന്നിവ വളരെ പ്രധാനമാണ് പേര് പറയുന്നതുപോലെ നെറ്റ്വർക്ക് സുരക്ഷ നമ്മുടെ നെറ്റ്വർക്കിനെ അനധികൃത ആക്സസ്സിൽ നിന്ന് സംരക്ഷിക്കേണ്ടതുണ്ട് അതിനാൽ അടിസ്ഥാനപരമായി നെറ്റ്വർക്ക് ആർക്കിടെക്ചർ പരിരക്ഷിക്കുന്നതിന് ആവശ്യമായ ഫിസിക്കൽ സോഫ്റ്റ്വെയർ പ്രവർത്തനങ്ങൾ ആ പ്രക്രിയകൾ നിരത്തേണ്ടതുണ്ട് നെറ്റ്വർക്ക് സുരക്ഷ അനധികൃത ആക്സസ് അനുചിതമായ ഉപയോഗം തകരാർ ഇല്ലാതാക്കൽ പൊളിക്കൽ തുടങ്ങിയവയിൽ നിന്ന് സംരക്ഷണം നൽകും അതിനാൽ ഇതൊരു സംരക്ഷിത പ്ലാറ്റ്ഫോമാണ് ഇത് അടിസ്ഥാന നെറ്റ്വർക്കിന് മുകളിൽ സൃഷ്ടിക്കേണ്ട ഒരു സംരക്ഷിത പ്ലാറ്റ്ഫോമാണ് അനധികൃത ഉപയോക്താക്കളിൽ നിന്ന് പരിരക്ഷിക്കുന്നതിനും അനധികൃത ആക്സസ് കേടുപാടുകളിൽ നിന്ന് പരിരക്ഷിക്കുന്നതിനും കമ്പ്യൂട്ടറുകൾ പോലുള്ള നിലവിലുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് കേടുപാടുകൾ വരുത്തുന്നതിനും അതിനാൽ നെറ്റ്വർക്ക് അടിസ്ഥാനപരമായി ഒരു ദുർബലമായ പോയിന്റാണ് അതിലൂടെ സാധ്യതയുള്ള ആക്രമണകാരികൾക്ക് പ്രവേശിക്കാനും വ്യത്യസ്ത ആക്രമണങ്ങൾ നടത്താനും കഴിയും ഓപ്പറേഷൻ സെക്യൂരിറ്റി എന്നത് ഒരു വിശകലന പ്രവർത്തനമാണ് അത് വിവര ആനുകൂല്യങ്ങളെ തരംതിരിക്കുകയും ഈ വിവര ആനുകൂല്യങ്ങളുടെ സംരക്ഷണത്തിനായി നിയന്ത്രണത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു അതിനാൽ ബിസിനസ്സ് വീക്ഷണത്തിൽ സംരക്ഷണം ഒരു പ്രധാന ഘടകമാണ് പ്രവർത്തന സുരക്ഷാ പ്രവർത്തനങ്ങൾ കാരണം ബിസിനസ്സ് പ്രവർത്തനങ്ങൾ സംരക്ഷിക്കപ്പെടും അന്തിമ ഉപയോക്തൃ വിദ്യാഭ്യാസം അന്തിമ ഉപയോക്താക്കൾ എന്നിവയാണ് ഒരു വ്യവസായത്തിന്റെ ഏറ്റവും വലിയ സുരക്ഷാ അപകടങ്ങൾ സുരക്ഷയുടെ കാര്യത്തിൽ ആദ്യം വിട്ടുവീഴ്ച ചെയ്യപ്പെടുന്നത് അവരാണ് അതിനാൽ ജീവനക്കാർക്കും അന്തിമ ഉപയോക്താക്കൾക്കും സാധാരണയായി ഇൻഫ്രാസ്ട്രക്ചറിനുള്ള വിവര ഭീഷണികളെയും ഭീഷണികളെയും കുറിച്ച് എല്ലാത്തരം ആശയങ്ങളും ഉണ്ടായിരിക്കില്ല അതിനാൽ ഈ അന്തിമ ഉപയോക്താക്കൾക്ക് സുരക്ഷയുടെ കാര്യത്തിൽ ദുർബലമായ പോയിന്റുകളാകാം അബദ്ധവശാൽ അക്രമികൾക്കായി വാതിൽ തുറക്കാതിരിക്കാൻ അവർക്ക് വേണ്ടത്ര വിദ്യാഭ്യാസം നൽകേണ്ടിവരും സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ സൈബർ ആക്രമണങ്ങളെ കുറിച്ച് തങ്ങളുടെ ജീവനക്കാരെ ബോധവൽക്കരിക്കുന്നത് വ്യവസായത്തിന് കൂടുതൽ പ്രധാനമാണ് അതിനാൽ വിവിധ തരത്തിലുള്ള സൈബർ സുരക്ഷാ ഭീഷണികൾ എന്തൊക്കെയാണ് സൈബർ സുരക്ഷാ ഭീഷണികൾ വൈവിധ്യമാർന്നതാണ് അവ വ്യത്യസ്ത തരത്തിലുള്ളവയാണ് അവയെല്ലാം മനസ്സിലാക്കുക എന്നത് ഒരു കഠിനമായ ജോലിയാണ് അതിനാൽ ransom ware വളരെ സാധാരണവും സാധാരണവുമായ ആക്രമണകാരിയാണ് ഒരു എൻക്രിപ്ഷൻ ഉപയോഗിച്ച് ആക്രമണകാരി ഉപയോക്താവിന്റെ കമ്പ്യൂട്ടർ ഫയലുകൾ ലോക്ക് ചെയ്യുന്ന ഒരു സൌകര്യം ഇത് ആക്രമണകാരിക്ക് നൽകുന്നു കൂടാതെ നിയമാനുസൃത ഉപയോക്താക്കൾക്ക് കൂടുതൽ ഉപയോഗിക്കുന്നതിനായി സിസ്റ്റം ലോക്ക് ചെയ്യുന്നതിന് ആക്രമണകാരി കുറച്ച് പണം ആവശ്യപ്പെടും അവർ സിസ്റ്റം ഉപയോഗിക്കാതെ ലോക്ക് ചെയ്യും ഇത്തരത്തിലുള്ള ആക്രമണത്തിന്റെ ഉദാഹരണങ്ങളിലൊന്നാണ് ലോക്കി റാൻസം വെയർ തരം ആക്രമണം മാൽവെയർ കൂടാതെ ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇത് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ് ഇത് വ്യത്യസ്ത കമ്പ്യൂട്ടർ വൈറസുകൾ സ്പൈവെയർ മുതലായവ പോലെ കമ്പ്യൂട്ടർ ഉപയോക്താവിനെ ശല്യപ്പെടുത്താൻ ഉപയോഗിക്കുന്നു ട്രോജൻ ഹോഴ്സ് പോലെ നമുക്ക് പരിചിതമായ സ്പൈവെയർ കമ്പ്യൂട്ടർ വൈറസുകൾ അതിനാൽ അടിസ്ഥാനപരമായി അവ കമ്പ്യൂട്ടറുകളുടെയും സൈബർ ഇൻഫ്രാസ്ട്രക്ചറിന്റെയും സാധാരണ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നവയാണ് അവ അടിസ്ഥാനപരമായി സംരക്ഷിക്കില്ല അല്ലെങ്കിൽ പൂർണ്ണമായും ശല്യപ്പെടുത്തില്ല സിസ്റ്റത്തിന്റെ പ്രവർത്തനത്തെ പൂർണ്ണമായും തടസ്സപ്പെടുത്തില്ല പക്ഷേ ചില പ്രവർത്തനങ്ങളിൽ ചില നടപടിക്രമങ്ങൾ ചില പ്രക്രിയകൾ തടസ്സപ്പെട്ടേക്കാം അത് സാധാരണ ഉപയോക്താവിനെ അവരുടെ നിയമാനുസൃതമായ ജോലികൾ ചെയ്യുന്നതിൽ നിന്ന് അടിസ്ഥാനപരമായി ശല്യപ്പെടുത്തും സോഷ്യൽ എഞ്ചിനീയറിംഗ് ഈ ആക്രമണത്തിൽ ഉപയോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള മനുഷ്യ ഇടപെടൽ ഉൾപ്പെടുന്നു സോഷ്യൽ എഞ്ചിനീയറിംഗ് സുപ്രധാന വിവരങ്ങൾ ലഭിക്കുന്നതിന് സുരക്ഷാ നയം ലംഘിക്കുന്നു അത് സാധാരണയായി ഇതിനകം തന്നെ സുരക്ഷിതമാണ് അതിനാൽ ഇത്തരത്തിലുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് സൈബർ സുരക്ഷാ ആക്രമണത്തിൽ സുരക്ഷാ നയങ്ങൾ അടിസ്ഥാനപരമായി തകർന്നിരിക്കുന്നു അതിനാൽ ഉദാഹരണങ്ങൾ വെള്ളമൊഴിക്കൽ വ്യാജവാർത്ത എന്നിവയാണ് തെറ്റായ വിവരങ്ങൾ അയയ്ക്കുന്ന ആക്രമണത്തിന്റെ ഒരു രൂപമാണ് ഫിഷിംഗ് ഈ വിവരങ്ങൾ അടിസ്ഥാനപരമായി തെറ്റായ ഇമെയിലുകൾ അയയ്ക്കുന്ന രൂപത്തിലാണ് അവ തിരിച്ചറിയാവുന്ന ഉറവിടങ്ങളിലൂടെ അയച്ചതാണ് കൂടാതെ ലോഗിൻ വിവരങ്ങളോ ക്രെഡിറ്റ് കാർഡ് വിവരങ്ങളോ പോലുള്ള നിർണായക ഡാറ്റ നേടുകയാണ് ലക്ഷ്യം അതിനാൽ ഫിഷിംഗ് ആക്രമണങ്ങൾ ഇമെയിലുകളിൽ ഇതിനകം ഉള്ളവർ അടിസ്ഥാനപരമായി ഫിഷിംഗ് ആക്രമണങ്ങൾ ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ നിങ്ങളോട് ചോദിക്കും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇമെയിൽ അക്കൌണ്ട് അസാധുവാകാൻ പോകുന്നു എന്ന ലോഗിൻ വിവരങ്ങൾ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകാൻ പോകുകയാണ് അടിസ്ഥാനപരമായി ഇത്തരത്തിലുള്ള ആക്രമണങ്ങളിൽ നിന്നുള്ള ഭീഷണികളെക്കുറിച്ച് ആരെങ്കിലും ഇതിനകം ബോധവാന്മാരല്ലെങ്കിൽ ഉപയോക്താവ് ആവശ്യപ്പെട്ട ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ നൽകുകയോ ആക്രമണകാരിക്ക് ഉപയോക്തൃനാമവും പാസ്വേഡും നൽകുകയും ചെയ്യും അതുവഴി അവർക്ക് അവരുടെ സിസ്റ്റത്തിലേക്കുള്ള ആക്സസ് നഷ്ടപ്പെടും അതിനാൽ ഈ കാര്യത്തിന്റെ ഉദാഹരണമാണ് Google ഡോക്സ് ഫിഷിംഗ് ഡ്രോപ്പ്ബോക്സ് ഫിഷിംഗ് ആക്രമണങ്ങൾ അവ വ്യത്യസ്ത സിസ്റ്റങ്ങളിൽ സാധ്യമായ ഇത്തരത്തിലുള്ള മറ്റ് ഫിഷിംഗ് ആക്രമണങ്ങൾ പോലെയാണ് ഇനി നമുക്ക് വ്യാവസായിക ഇന്റർനെറ്റിലേക്ക് മടങ്ങാം അതിനാൽ നമ്മൾ വ്യാവസായിക ഇന്റർനെറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് സാധാരണയായി വ്യത്യസ്ത വസ്തുക്കളുടെ സെൻസറുകൾ ആക്യുവേറ്ററുകൾ ഇന്റർനെറ്റ് ഓഫ് തിംഗ്സ് എന്നിവയുടെ ഉപയോഗത്തെക്കുറിച്ചാണ് അതിനാൽ കമ്പ്യൂട്ടറുകൾ ആളുകൾ മെഷീനുകൾ എന്നിവയുടെ ഇന്റർനെറ്റ് വ്യാവസായിക ഇന്റർനെറ്റിന്റെ വികസനത്തിൽ പങ്കാളികളായി വ്യത്യസ്തമാണ് വ്യാവസായിക ഇന്റർനെറ്റ് വ്യാവസായിക ബുദ്ധിപരമായ പ്രവർത്തനങ്ങളെ ആവശ്യമുള്ള ബിസിനസ്സ് ഫലങ്ങൾ നേടുന്നതിന് വിപുലമായ ഡാറ്റാ അനലിറ്റിക് ടൂളുകൾ ഉപയോഗിക്കാൻ പ്രാപ്തമാക്കുന്നു വ്യാവസായിക ഇന്റർനെറ്റിന്റെ ഉദാഹരണങ്ങൾ അടിസ്ഥാനപരമായി ഓട്ടോണമസ് കാറുകൾ ഇന്റലിജന്റ് റെയിൽറോഡ് സംവിധാനങ്ങൾ എന്നിവ പോലുള്ള ഫലങ്ങളാണ് അതിനാൽ IIoT സെക്യൂരിറ്റികൾക്ക് സുരക്ഷാ പ്രശ്നങ്ങൾ പ്രധാനമാണ് കൂടാതെ സിസ്റ്റങ്ങൾ സുരക്ഷിതമാക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ സുരക്ഷിതമാക്കുന്നത് രൂപകൽപ്പന ചെയ്യേണ്ടതുണ്ട് അതിനാൽ വ്യവസായങ്ങൾക്ക് വൈവിധ്യമാർന്ന സംവിധാനങ്ങളും ഉപകരണങ്ങളും ഉപയോഗിക്കേണ്ടതുണ്ട് എന്നാൽ എല്ലാം സ്മാർട്ട് ഫാക്ടറി പ്ലാറ്റ്ഫോമിൽ സംയോജിപ്പിക്കും നമ്മൾ വ്യവസായങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ചില കാര്യങ്ങൾ പൈതൃകമാണ് അവ വ്യവസായത്തിൽ പതിറ്റാണ്ടുകളായി നിലവിലുണ്ട് അതേസമയം ചില സംവിധാനങ്ങൾ അടുത്തിടെ നിർമ്മിച്ചവയായിരിക്കാം അവ ഇതിനകം തന്നെ സുരക്ഷിതമാക്കാൻ നിർമ്മിച്ചതാണ് അതിനാൽ നടപ്പിലാക്കുന്ന പ്രക്രിയയിൽ ലെഗസി സിസ്റ്റങ്ങൾ പ്രത്യേകിച്ചും ഗൌരവമായി കാണണം കാരണം ഈ സംവിധാനങ്ങൾ വ്യത്യസ്ത ആക്രമണങ്ങൾ നടത്തുന്നതിനുള്ള ദുർബലതയുടെ പോയിന്റുകളായിരിക്കാം ആക്രമണകാരികൾക്ക് സിസ്റ്റത്തിലേക്ക് പ്രവേശിക്കാൻ പൈതൃക സംവിധാനങ്ങൾ തന്നെയാകാം അപകടസാധ്യതയുള്ള പോയിന്റുകളായിരിക്കുക കാരണം ആ ദിവസങ്ങളിൽ സുരക്ഷ നന്നായി മനസ്സിലാക്കിയിരുന്നില്ല എല്ലായ്പ്പോഴും സുരക്ഷിതമല്ലാത്ത തരത്തിലാണ് സംവിധാനങ്ങൾ രൂപകൽപ്പന ചെയ്തിരുന്നത് അതിനാൽ ആ സിസ്റ്റങ്ങളിൽ ചില പോയിന്റുകൾ ഉപേക്ഷിക്കാനുള്ള ചില സാധ്യതകളുണ്ട് അടിസ്ഥാനപരമായി ആക്രമണകാരികൾക്ക് ആക്രമണം നടത്താൻ കഴിയും അതിനാൽ ഉൽപ്പാദന സമ്പ്രദായത്തിലെ ഓരോ ആഴ്ചയും വ്യാവസായിക പ്രക്രിയയിൽ മുഴുവൻ ഫാക്ടറിയെയും അപകടത്തിലാക്കുന്നു അതിനാൽ വ്യക്തിഗത IIoT നടപ്പിലാക്കുന്നവരുടെ കൈകളിലെ ജീവിത സുരക്ഷ അനന്തരഫലമായി അപകടകരമാണ് അതിനാൽ ഒരു IIoT ഇൻഡസ്ട്രി 4 0 എന്നിവയുടെ പശ്ചാത്തലത്തിൽ സൈബർ സുരക്ഷ ആവശ്യകതകൾ എന്തൊക്കെയാണ് ആദ്യത്തേത് അടിസ്ഥാനപരമായ ഒന്നാണ് ഇത് IIoT ക്ക് മാത്രമല്ല ഏത് കമ്പ്യൂട്ടിംഗ് സിസ്റ്റത്തിനും ബാധകമാണ് ഇത് CIA ട്രയാഡ് എന്നറിയപ്പെടുന്നു C എന്നാൽ രഹസ്യാത്മകത I എന്നത് സമഗ്രത A എന്നത് ലഭ്യത രണ്ടാമത്തെ സെറ്റ് ആവശ്യകതകൾ അടിസ്ഥാനപരമായി IIoT നിർദ്ദിഷ്ട ആവശ്യകതകളാണ് അത് വിശ്വാസ്യതയെയും സുരക്ഷയെയും കുറിച്ച് സംസാരിക്കുന്നു അതിനാൽ സിഐഎ ട്രയാഡിലെ രഹസ്യസ്വഭാവം വിവരങ്ങൾ അനധികൃതമായി വെളിപ്പെടുത്തുന്നതിൽ നിന്ന് തടയുന്നു ഞാൻ സമഗ്രതയെ പ്രതിനിധീകരിക്കുന്നു ഇത് ഏതെങ്കിലും അനധികൃത രീതിയിൽ ഡാറ്റ മാറ്റാൻ കഴിയില്ലെന്ന് ഉറപ്പാക്കുന്നു കൂടാതെ A എന്നത് ലഭ്യതയെ സൂചിപ്പിക്കുന്നു ഇത് അംഗീകൃത ഉപയോക്താവിന് മാത്രമേ വിവരങ്ങൾ ലഭ്യമാകൂ എന്ന് ഉറപ്പ് നൽകുന്നു IIoT യുടെ പശ്ചാത്തലത്തിൽ സൈബർ സുരക്ഷ നൽകുന്നതിനുള്ള ചില വെല്ലുവിളികൾ ഇവയാണ് അതിനാൽ അടിസ്ഥാനപരമായി നമ്മൾ വ്യവസായങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വ്യത്യസ്ത സെൻസറുകൾ ആക്യുവേറ്ററുകൾ എന്നിവയെല്ലാം വിന്യസിച്ചിരിക്കുന്ന മെഷീനുകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഈ നോഡുകളെല്ലാം ഇന്റർ നെറ്റ്വർക്കാണ് അവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ അടിസ്ഥാനപരമായി നിങ്ങൾക്ക് അത്തരം ഒരു തരത്തിലുള്ള ഒരു പരിവർത്തനം ആവശ്യമുണ്ടെങ്കിൽ വ്യവസായങ്ങൾ ഭൌതിക സംവിധാനങ്ങളിൽ നിന്ന് പരിവർത്തനം ചെയ്യേണ്ടിവരും ഇത്തരത്തിലുള്ള അടിസ്ഥാന സൌകര്യങ്ങളില്ലാതെ വർഷങ്ങളായി നിലവിലുണ്ട് സെൻസറുകൾ ആക്യുവേറ്ററുകൾ എന്നിവ ഉപയോഗിച്ച് കണക്റ്റുചെയ്തിരിക്കുന്ന യന്ത്രങ്ങളുമായി കൂടുതൽ സ്മാർട്ടായ ഒന്നായി രൂപാന്തരപ്പെടുന്നു അതിനാൽ ഈ പരിവർത്തനം സംഭവിക്കേണ്ടതുണ്ട് ഈ പരിവർത്തനം നടക്കാൻ പോകുമ്പോൾ ഈ പരിവർത്തന പ്രക്രിയയിലൂടെ അവതരിപ്പിക്കാൻ സാധ്യതയുള്ള ഈ വ്യത്യസ്തമായ ദുർബലതയുടെ എല്ലാ പോയിന്റുകളും നിങ്ങൾ കണക്കിലെടുക്കണം അതിനാൽ നിർമ്മാണം ലോജിസ്റ്റിക്സ് ഷിപ്പിംഗ് ഹെൽത്ത്കെയർ വ്യവസായങ്ങൾ തുടങ്ങിയ പരിവർത്തന കഴിവുകളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ വ്യാവസായിക ഇന്റർനെറ്റിന്റെ പശ്ചാത്തലത്തിൽ വ്യത്യസ്തമായി വ്യത്യസ്തമായി പരിഗണിക്കേണ്ടതുണ്ട് അതിനാൽ സംഭവിക്കാവുന്നത് ഒരാൾക്ക് ഡാറ്റാ ലംഘനങ്ങൾ സംഭവിക്കാം ഇത് വിവിധ തരത്തിലുള്ള സൈബർ കുറ്റകൃത്യങ്ങളും സൈബർ ഭീഷണികളും വർദ്ധിപ്പിക്കുന്നു കാരണം വിവിധ തരത്തിലുള്ള ആക്രമണങ്ങൾ സാധ്യമാണ് സൈബർ സുരക്ഷ ഇൻഡസ്ട്രി 4 0 അത് രഹസ്യസ്വഭാവം ആധികാരികത സംയോജനം നിരസിക്കാതിരിക്കൽ ആക്സസ് നിയന്ത്രണം എന്നിവ പോലെ പരിഗണിക്കേണ്ടതുണ്ട് ഞങ്ങളുടെ മെഷീനുകളും വ്യവസായത്തിലെ വ്യത്യസ്ത ഉപകരണങ്ങളും സ്മാർട്ടാക്കാൻ ഞങ്ങൾ ക്രമേണ ശ്രമിക്കുന്നു അതിനാൽ ഞങ്ങൾ ഞങ്ങളുടെ സിസ്റ്റങ്ങളിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ അവതരിപ്പിക്കുന്നു അതിനാൽ ചില പുതിയ ഇന്റർനെറ്റ് സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് അവ ഈ ആമുഖത്തിലൂടെയും പരിവർത്തന പ്രക്രിയയിലൂടെയും തിരിച്ചറിയേണ്ടതുണ്ട് ഈ പുതിയ സുരക്ഷാ പ്രശ്നങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് ഒപ്പം വരാൻ സാധ്യതയുള്ള ആക്രമണങ്ങളും ഞങ്ങൾ വിശകലനം ചെയ്യുകയും തിരിച്ചറിയുകയും പരിഹരിക്കുകയും ചെയ്യേണ്ടതുണ്ട് അതിനാൽ ഇൻഡസ്ട്രി 4 0 ന്റെ പശ്ചാത്തലത്തിൽ വ്യത്യസ്ത സുരക്ഷാ പ്രശ്നങ്ങൾ സുരക്ഷാ ഭീഷണികൾ എന്നിവ കൈകാര്യം ചെയ്യുന്നതിന് വ്യത്യസ്ത രീതികൾ ഞങ്ങൾ ആവിഷ്കരിക്കേണ്ടതുണ്ട് വ്യത്യസ്ത രീതികൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് വ്യത്യസ്ത അൽഗോരിതങ്ങൾ ഉണ്ട് അതിലൊന്ന് സൈബർ ആക്രമണം കണ്ടെത്തുന്നതിനുള്ളതാണ് ഭാവിയിൽ വരാൻ പോകുന്ന ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടെങ്കിൽ പ്രവചിക്കാൻ കഴിയുന്ന ഒരു കമ്പ്യൂട്ടേഷണൽ ഇന്റലിജന്റ് സിസ്റ്റം പ്ലാറ്റ്ഫോം അടിസ്ഥാനപരമായി ഈ പ്ലാറ്റ്ഫോം ആവശ്യമായ ഒരു അൽഗോരിതം നടപ്പിലാക്കുന്നു അത് ഡാറ്റ സംയോജിപ്പിച്ച് ഫിൽട്ടർ ചെയ്യുന്നു കൂടാതെ ഭാവിയിൽ വരാൻ സാധ്യതയുള്ള ഒരു ഭീഷണിയുണ്ടോ എന്ന് തിരിച്ചറിയാൻ വിശകലനം ചെയ്യും അതിനാൽ ഇതാണ് സിഐഎ സംവിധാനം ഇത് ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് മറ്റൊന്ന് സോഫ്റ്റ്വെയർ നിർവചിക്കപ്പെട്ട ക്ലൌഡ് മാനുഫാക്ചറിംഗ് ആർക്കിടെക്ചറാണ് ഇതിൽ അടിസ്ഥാനപരമായി നിങ്ങൾക്ക് സിസ്റ്റത്തിന്റെ 3 ഭാഗങ്ങളുണ്ട് ഒന്ന് സോഫ്റ്റ്വെയർ വിമാനം രണ്ടാമത്തേത് ഹാർഡ്വെയർ തലം മൂന്നാമത്തേത് ഇന്റലിജൻസ് ചട്ടക്കൂടിലെ ഇഐഎഫ് സോഫ്റ്റ്വെയർ പ്ലെയിനിൽ അടിസ്ഥാനപരമായി CE കളിലെ വ്യത്യസ്ത നിയന്ത്രണ ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു ആശയവിനിമയത്തിലും പ്രവർത്തനങ്ങളിലും ആഴത്തിലുള്ള നിരീക്ഷണം ഉള്ളതിനാൽ ഈ സിഇകളിൽ ഓരോന്നും ഡാറ്റ ടാപ്പ് പോയിന്റുകളായി ഉപയോഗിക്കുന്നു SDCMA യിൽ സ്ട്രീമിംഗ് ഡാറ്റ EIF ലേക്ക് CE വഴി വിതരണം ചെയ്യുന്നു കൂടാതെ സെൻസ് ഡാറ്റ EIF കണ്ടുപിടിക്കുന്നു കൂടാതെ ഈ EIF ന് അസാധാരണത്വം കണ്ടെത്തുന്നതിനുള്ള ഉത്തരവാദിത്തവും ഉണ്ട് അതിനാൽ ഞങ്ങൾ ഈ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു അതിനാൽ സൈബർ സുരക്ഷ എന്തുകൊണ്ട് പ്രധാനമാണ് അതിന്റെ സാരാംശം സൈബർ സുരക്ഷയുടെ വ്യത്യസ്ത ഘടകങ്ങൾ ഇൻഡസ്ട്രി 4 0 ലെ ഈ IoT IIoT പ്ലാറ്റ്ഫോമുകളിൽ ആരംഭിച്ചേക്കാവുന്ന ആക്രമണങ്ങളുടെ സാദ്ധ്യത എന്നിവ ഞങ്ങൾ മനസ്സിലാക്കി എന്നതാണ് ഞങ്ങൾ ചെയ്തത് ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ അറിയാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിൽ നൽകിയിരിക്കുന്ന ചില അവലംബങ്ങൾ ഇവയാണ് നിങ്ങൾക്ക് അവയിലൂടെ കടന്നുപോകാം മറ്റ് നിരവധി റഫറൻസുകൾ ഉണ്ട് അവ ഏതെങ്കിലും തരത്തിലുള്ള തിരയലിലൂടെയും ലഭിക്കും വ്യത്യസ്ത പ്രശ്നങ്ങൾ വ്യത്യസ്ത പരിഹാരങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് സംസാരിക്കുന്ന മറ്റ് വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും അതിനാൽ സൈബർ സുരക്ഷ IoT സുരക്ഷയ്ക്കുള്ള സുരക്ഷ IIoT അല്ലെങ്കിൽ ഇക്കാലത്ത് കൂടാതെ ധാരാളം ഗവേഷണങ്ങളും ഈ വിഷയങ്ങളിൽ നടക്കുന്നു അതിനാൽ ഈ പ്രശ്നങ്ങളിൽ ഓരോന്നും ആഴത്തിൽ ആഴ്ന്നിറങ്ങാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ അടിസ്ഥാനപരമായി ലഭ്യമായ ഈ വ്യത്യസ്ത സാഹിത്യങ്ങളിലൂടെ കടന്നുപോകേണ്ടതുണ്ട് നിങ്ങൾ ഒരു സുരക്ഷാ ഗവേഷകനാണെങ്കിൽ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ അവ നടപ്പിലാക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടാകാം അതിനാൽ അതിനും നിങ്ങൾ ഈ വ്യത്യാസങ്ങളിലും പുറത്തും കൂടുതൽ വിശദമായി ഈ വ്യത്യസ്ത സാഹിത്യങ്ങളിലൂടെ കടന്നുപോകേണ്ടതുണ്ട് ഇതോടെ ഞങ്ങൾ ഈ പ്രഭാഷണം അവസാനിപ്പിക്കും